ആശംസകൾ ഇൻസ്ട്രക്ഷനൽ ഘടകങ്ങളെ കുറിച്ചുള്ള TALE മൊഡ്യൂൾ 3 യൂണിറ്റ് 6ലേക്ക് സ്വാഗതം മൊഡ്യൂൾ 3 ന്റെ മുമ്പത്തെ യൂണിറ്റുകളിൽ തലച്ചോറിനെക്കുറിച്ചുള്ള നമ്മുടെ ഗ്രാഹ്യത്തെയും ഘടനയെയും അടിസ്ഥാനമാക്കി ചില ഇൻസ്ട്രക്ഷണൽ രീതികൾ എങ്ങനെ ഉപയോഗിക്കാമെന്നു നമ്മൾ കണ്ടു മെമ്മറി എങ്ങനെ രൂപപ്പെടുന്നു മെമ്മറിയിൽ എന്തെങ്കിലും നിലനിർത്തുന്നതെങ്ങനെ പഠനത്തിലൂടെ നമ്മൾ എന്താണ് ശരിക്കും മനസിലാക്കുന്നത് പഠന പ്രക്രിയയിൽ എന്താണ് ഉൾപ്പെട്ടിരിക്കുന്നത് എന്നിവ നമ്മൾ പ്രധാനമായും പരിശോധിച്ചു ആവശ്യമായ പഠനം നേടുന്നതിന് ഒരു ക്ലാസ് മുറിയിലെ വിദ്യാർത്ഥികളുമായി സംവദിക്കുന്നതിൽ യഥാർത്ഥത്തിൽ ചില പ്രവർത്തനങ്ങൾ നമ്മൾ എങ്ങനെ ചെയ്യും പഠനം എന്ന് വിളിക്കുന്നതെന്തായാലും പഠിക്കുന്നതിലൂടെ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് നമ്മൾ വീണ്ടും അവലോകനം ചെയ്യും ഈ യൂണിറ്റിൽ നമ്മൾ ചില ഇൻസ്ട്രക്ഷണൽ ഘടകങ്ങൾ പരിശോധിക്കും അവ ഉള്ളടക്കത്തിൽ നിന്നും വിഭിന്നമായ ഇൻസ്ട്രക്ഷണൽ പ്രവർത്തനങ്ങളാണ് ഈ ഘടകങ്ങൾ ഏത് തരത്തിലുള്ള കോഴ്സിലും ഉപയോഗിക്കാം ഏറ്റവും പ്രധാനപ്പെട്ടതായി നമ്മൾ കരുതുന്ന ചില ഇൻസ്ട്രക്ഷണൽ ഘടകങ്ങൾ നമുക്ക് നോക്കാം ഈ യൂണിറ്റിൽ നമ്മൾ രണ്ട് തരം രീതികൾ കാണാൻ പോകുന്നു ഒന്ന് ലക്ഷ്യങ്ങളും ഫീഡ്ബാക്കും മറ്റൊന്ന് സമാനതകളും ഉപമകളും ഈ യൂണിറ്റിലെ നമ്മുടെ ഊന്നൽ അവയുടെ പങ്ക് അവ എങ്ങനെ കൃത്യമായി ഉപയോഗപ്പെടുത്തണം എന്നിവയാണ് ടെയിൽ 1 ടെയിൽ മൊഡ്യൂൾ 2 എന്നിവയിൽ നമ്മൾ പഠനത്തെക്കുറിച്ചും വിദ്യാഭ്യാസത്തെക്കുറിച്ചും വിശദമായി സംസാരിച്ചു പക്ഷേ ഒരിക്കൽ കൂടി നമുക്ക് ഒരു അവലോകനം നടത്താം പഠിച്ചതിന്റെ വ്യക്തിപരമായ വ്യാഖ്യാനം സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ അർത്ഥവത്താക്കുന്ന ഒരു സജീവ പ്രക്രിയയാണ് പഠനം എന്തെങ്കിലും ലഭിക്കുമ്പോൾപഠിച്ച കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളുടെ വ്യക്തിപരമായ വ്യാഖ്യാനം ചേർക്കുകയാണെങ്കിൽ നിങ്ങൾ അത് മെമ്മറിയിൽ ഇടുകയും അത് നിലനിർത്തുകയും ചെയ്യും എന്നാൽ പഠനത്തിൽ വസ്തുതകളുടെ വ്യക്തിപരമായ വ്യാഖ്യാനങ്ങൾ സംഭരിക്കുക മാത്രമല്ല ചെയ്യുന്നത് കാരണം നമ്മിൽ ഓരോരുത്തരും തന്നിരിക്കുന്ന വസ്തുതയെ വ്യത്യസ്തമായി വ്യാഖ്യാനിച്ചേക്കാം എന്നാൽ നിലനിർത്തലിന്റെ ആവശ്യകതകളിലൊന്ന് ആശയങ്ങളെ മറ്റ് ആശയങ്ങളുമായും മുൻകാല പഠനവുമായും ബന്ധിപ്പിക്കുന്ന തരത്തിൽ അർത്ഥവും ധാരണയും സൃഷ്ടിക്കുക എന്നതാണ് അതാണ് നമ്മൾ ഇപ്പോൾ പ്രവർത്തിക്കുന്ന സന്ദർഭത്തിൽ പഠനത്തെ ശരിക്കും ഉൾക്കൊള്ളുന്നത് ഒരിക്കൽ കൂടി അർത്ഥം പര്യാപ്തമല്ല ആശയങ്ങൾ പ്രസക്തവും പഠന പ്രവർത്തനം നടത്താൻ ഉപയോഗപ്രദവുമാകണമെങ്കിൽ പഠിതാവ് അതിന്റെ നിബന്ധനകൾ അറിഞ്ഞിരിക്കണം ഉദാഹരണത്തിന് എപ്പോൾ ഉപയോഗിക്കണം ഏത് സന്ദർഭത്തിലാണ് ഉപയോഗിക്കേണ്ടത് എനിക്ക് ഉള്ള ഈ അറിവ് എനിക്ക് എപ്പോൾ ഉപയോഗിക്കാൻ കഴിയും അതും പഠനത്തിന്റെ ഭാഗമാണ് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും തീരുമാനങ്ങൾ എടുക്കുന്നതിനും മറ്റ് ഉപയോഗപ്രദമായ ജോലികൾ ചെയ്യുന്നതിനും ഈ അറിവ് ഉപയോഗിക്കുന്നതിനുള്ള വഴികൾ വിദ്യാർത്ഥികൾ പഠിക്കണം ഈ പ്രവർത്തനങ്ങളെല്ലാം നിങ്ങൾ പഠനം എന്ന് വിളിക്കുന്നതിൽ ഉൾപ്പെടുന്നു ഈ ഫലപ്രദമായ ചിന്തയാണ് വിദ്യാഭ്യാസത്തിൻറെ പ്രാഥമിക ലക്ഷ്യം നിങ്ങൾ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ ഈ സവിശേഷതകളെല്ലാം ഈ കഴിവുകളെല്ലാം ഉൾക്കൊള്ളുന്ന പഠനമാണ് രണ്ട് തരത്തിലുള്ള ജോലികൾ ഉണ്ട് ഒന്ന് പുനരുൽപാദന ചുമതല മറ്റൊന്ന് യുക്തിസഹമായ ചുമതല പുനരുൽപാദന ജോലികൾ നോക്കാം അധ്യാപകൻ നേരിട്ട് പഠിപ്പിച്ച അല്ലെങ്കിൽ നേരിട്ട് വിശദീകരിച്ച അറിവോ കഴിവുകളോ വിദ്യാർത്ഥി ആവർത്തിക്കുന്നു നമ്മൾ ഉദ്ദേശിക്കുന്ന റിസോഴ്സ്സ് എന്നാൽ പാഠപുസ്തകങ്ങൾ ഇന്റർനെറ്റ് ഉറവിടങ്ങൾ മുതലായവ ഒരു വിദ്യാർത്ഥി വിവരങ്ങൾ പുനർനിർമ്മിക്കാൻ ശ്രമിക്കുമ്പോൾ അയാൾ ഒന്നുകിൽ അതെ വാക്കുകളോ അല്ലെങ്കിൽ ഭാഷയിലെ ചെറിയ മാറ്റങ്ങളോടെ പുനർനിർമ്മിക്കുന്നു എന്നാൽ അദ്ദേഹത്തിന് മുന്നിൽ അവതരിപ്പിച്ച അറിവ് പുനർനിർമ്മിക്കുകയോ ആവർത്തിക്കുകയോ ചെയ്യുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഉദാഹരണത്തിന് ഒരു ലേബൽ ചെയ്ത ഡയഗ്രം പകർത്തുന്നു ടീച്ചർ ക്ലാസ് മുറിയിലെ ബോർഡിൽ ഒരു ഡയഗ്രം വരയ്ക്കുന്നു തുടർന്ന് അവ ഓരോ ഘടകങ്ങളും ലേബൽ ചെയ്യുന്നു മാത്രമല്ല വിദ്യാർത്ഥി അത് ഓർമിക്കുമെന്നും അത് വരക്കാൻ പഠിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു ഉദാഹരണത്തിന് എഞ്ചിനീയറിംഗ് കോഴ്സുകളിൽ പ്രോഗ്രാമിംഗ് ഉപയോഗിച്ച് പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള മാർഗ്ഗം പഠിപ്പിക്കുന്നു ക്ലാസ് മുറിയിൽ അവതരിപ്പിക്കുന്ന സി പ്രോഗ്രാമിൽ ഒരു നിശ്ചിത എണ്ണം പ്രോഗ്രാമുകൾ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നു എഴുതിയ പരീക്ഷയിൽ വിദ്യാർത്ഥി അവയെ ഓർമ്മിക്കുകയോ ലബോറട്ടറിയിൽ പുനർനിർമ്മിക്കുകയോ പ്രവർത്തിപ്പിക്കുകയോ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അല്ലെങ്കിൽ മുമ്പ് നൽകിയ നിർവചനമോ ലളിതമായ വിശദീകരണമോ ഓർമ്മിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു എന്തെങ്കിലും നിർവചിക്കുക നേരത്തെ കാണിച്ച രീതിയിൽ ഒരു കണക്കുകൂട്ടൽ പൂർത്തിയാക്കുക ക്ലാസ് മുറിയിൽ അവതരിപ്പിച്ച ഒരു സിദ്ധാന്തം തെളിയിക്കുക ഇതെല്ലം ഓർമ്മിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വിദ്യാർത്ഥി ചെയ്യേണ്ട നിരവധി ഘട്ടങ്ങളുണ്ട് കൂടാതെ വിദ്യാർത്ഥിയും ആ ഘട്ടങ്ങൾ പുനർനിർമ്മിക്കുകയും പ്രശ്നം പരിഹരിക്കുകയും ചെയ്യുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇവ പുനരുൽപാദനമാണ് അതായത് മിക്കവാറും അവ തിരിച്ചുവിളിക്കുന്ന തലത്തിലോ അല്ലെങ്കിൽ ഇടയ്ക്കിടെ പ്രയോഗിക്കുന്ന വിഭാഗത്തിൽ എക്സിക്യൂട്ട് ലെവലിലോ വരുന്നു ഈ പുനരുൽപാദന ജോലികൾ സംബന്ധിച്ച് പഠിതാവ് മെറ്റീരിയൽ പ്രോസസ്സ് ചെയ്യുകയോ അല്ലെങ്കിൽ പഠിക്കുകയോ പഠനം അല്ലെങ്കിൽ മനസ്സിലാക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല അതിനർത്ഥം എന്നോട് ആവശ്യപ്പെട്ടാൽ ആഗ്രഹിക്കുന്നതെന്തും മനസിലാക്കാതെ തന്നെ പുനർനിർമ്മിക്കാൻ എനിക്ക് കഴിയും ഞാൻ മെറ്റീരിയൽ ഓർക്കുന്നു ഞാൻ പുനർനിർമ്മിക്കുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ടാസ്ക്കിനെ ലളിതമാക്കുന്നുവെങ്കിലും പഠിതാക്കൾക്ക് അർത്ഥം സൃഷ്ടിക്കുന്നതിനും നിലവിലുള്ള പഠനവുമായി ബന്ധിപ്പിക്കുന്നതിനും ആവശ്യമില്ലെന്ന പോരായ്മയുണ്ട് അതിനർത്ഥം നമ്മൾ നേരത്തെ വിശദീകരിച്ചതുപോലെ പ്രവർത്തന മെമ്മറിയിൽ നിന്ന് അറിവോ വിവരമോ ദീർഘകാല മെമ്മറിയിലേക്ക് കൈമാറുകയും അത് നിലനിർത്തുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പുനർനിർമ്മാണ ജോലികളിൽ അത്തരം പ്രവർത്തനങ്ങൾ ആവശ്യമില്ല യുക്തിസഹമായ ജോലികൾ വിദ്യാർത്ഥി പഠിച്ച കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്യുകയും പ്രയോഗിക്കുകയും നിലവിലുള്ള പഠനത്തിലേക്കും അനുഭവത്തിലേക്കും ബന്ധിപ്പിക്കുകയും വേണം നിലവിലുള്ള പഠനവുമായി ഇത് ലിങ്കുചെയ്യുന്നു എന്ന വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുന്നുവെന്നത് ശ്രദ്ധിക്കുകഇത് തലച്ചോറ് എങ്ങനെ പഠിച്ചുവെന്ന് നമ്മൾ പര്യവേക്ഷണം ചെയ്ത യൂണിറ്റുകളിൽ നിന്നുള്ള ഒരു പ്രക്രിയയാണ് മറ്റ് എൻഗ്രാമുകളുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു കൂട്ടം എൻഗ്രാമുകളുമായി ഉണ്ടാകുന്ന ലിങ്കിംഗ് ലിങ്കിംഗ് എന്ന പദം പതിവായി ഉപയോഗിക്കുന്നു അത് നല്ല പഠനത്തിൽ ഉൾപ്പെടുന്നു അങ്ങനെ ചെയ്യുമ്പോൾ അവർ അതിനെക്കുറിച്ച് ചിന്തിക്കണം ബ്ലൂംസ് ടാക്സോണമിയിൽ ഈ ടാസ്ക് താരതമ്യേന ഉയർന്നതാണ് ഉയർന്ന വൈജ്ഞാനിക നിലകൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് യുക്തി നിർമ്മാണങ്ങൾ തമ്മിലുള്ള അല്ലെങ്കിൽ എൻഗ്രാമുകൾ തമ്മിലുള്ള ബന്ധം വികസിപ്പിക്കുന്നു ഇതിനർത്ഥം വ്യാപകമായി വ്യത്യസ്തമായ ചെറിയ നെറ്റ്വർക്കുകൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു അതിനാൽ ഒരു നെറ്റ്വർക്ക് അഭ്യർത്ഥിക്കുന്ന നിമിഷം മറ്റ് നെറ്റ്വർക്കുകളും അവരുമായി ഇടപഴകുന്നു നിങ്ങൾക്ക് യുക്തിസഹമായ ജോലികൾ ഉള്ളപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് നിങ്ങൾ നയിക്കപ്പെടും ഭൂരിപക്ഷം കോളേജുകളിലും ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് കുറച്ച് സമയത്തിനുള്ളിൽ വളരെയധികം കാര്യങ്ങൾ അധ്യാപകർ പഠിപ്പിക്കുന്നു അല്ലെങ്കിൽ യുക്തിസഹമായ കഴിവുകൾ കുറഞ്ഞ വിദ്യാർത്ഥികളെ പഠിപ്പിക്കേണ്ടി വരുന്നുഅപ്പോൾ പലപ്പോഴും കാണാപ്പാഠം പഠിക്കുന്ന പുനരുൽപാദന ജോലികൾ മാത്രം നടക്കുന്നു താഴ്ന്ന വൈജ്ഞാനിക തലങ്ങളിൽ വിലയിരുത്തലുകൾ നടത്തുകയും ചെയ്യുന്നു ഇത് മനപൂർവ്വം അല്ലപക്ഷെ അങ്ങിനെ സംഭവിക്കുന്നു പാഠ്യപദ്ധതി വളരെയധികം ലോഡുചെയ്യുമ്പോൾ അതായത് ഒരു പ്രത്യേക കോഴ്സിന്റെ ഉള്ളടക്കം വിശാലമാണ് അല്ലെങ്കിൽ വ്യത്യസ്ത വൈജ്ഞാനിക കഴിവുകളുള്ള വൈവിധ്യമാർന്ന വിദ്യാർത്ഥികൾ വരുമ്പോൾ മുഴുവൻ സിസ്റ്റവും ഒരു നിശ്ചിത കാലയളവിൽ സ്വയം ക്രമീകരിക്കുകയോ അല്ലെങ്കിൽ അധ്യാപകർ റീപ്രൊഡക്ഷൻ ജോലികൾ മാത്രം ചെയ്യുകയോ ആണ് പുനരുൽപാദന ചുമതലകളിലേക്ക് പ്രധാനമായും ക്ലാസ് മുറികൾ ചുരുങ്ങുമ്പോൾ വിലയിരുത്തലുകൾ വൈജ്ഞാനിക തലങ്ങളിൽ താഴ്ന്ന നിലയിലേക്ക് എത്തുന്നു വിശദീകരിക്കാൻ കഴിയുന്ന ഒരു നല്ല അധ്യാപകൻ പോലും അല്ലെങ്കിൽ വിദ്യാർത്ഥികളുമായി നന്നായി ആശയവിനിമയം നടത്തുന്ന ആൾ പോലും ഈ നമ്പർ 20 ഒരു കേവല കാര്യമല്ല പഠിക്കാൻ കഴിയുന്നതിനേക്കാൾ 20 മടങ്ങ് വേഗത്തിൽ മെറ്റീരിയലുകൾ നൽകുന്നു തീർച്ചയായും ഈ 20 ദുർബലരായ പഠിതാക്കൾക്കും ബാധകമാണ് ഉയർന്ന നിലവാരത്തിലുള്ള പഠിതാക്കൾക്ക് ഈ സമയം മതിയാകും എന്നിട്ടും സംഭവിക്കുന്നത് വിദ്യാർത്ഥികളെ പഠിക്കാൻ സഹായിക്കുന്നതിന് അധ്യാപകൻ നിർബന്ധിതനായ സമയം പര്യാപ്തമല്ല കാരണം വിവരങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നതിന് പഠനത്തിന് ഒരു നിശ്ചിത സമയം ആവശ്യമാണ് അതുകാരണം വിദ്യാർത്ഥികൾക്ക് സ്വന്തം അർത്ഥങ്ങൾ സൃഷ്ടിക്കേണ്ട ഒരു അവസരമോ മറ്റോ ഉണ്ടാകുന്നില്ല സ്വന്തം അർത്ഥങ്ങൾ സൃഷ്ടിക്കാനുള്ള ശ്രമം ഉപേക്ഷിക്കാനും എങ്ങനെയെങ്കിലും പുനരുൽപാദനത്തിലൂടെ പഠനത്തെ ആശ്രയിക്കാനോ അല്ലെങ്കിൽ പ്രധാനമായും കാണാപ്പാഠം പഠിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനോ വിദ്യാർത്ഥികളെ പ്രേരിപ്പിക്കുന്നു തീർച്ചയായും ഇത് സാർവത്രികമായി ശരിയല്ലഇങ്ങനെയൊക്കെയാണെങ്കിലും ചില നല്ല വിദ്യാർത്ഥികൾ കൂടുതൽ പരിശ്രമിക്കുന്നു വിവരങ്ങൾ സ്വാംശീകരിക്കാനും യുക്തി വിശദീകരിക്കാനും അവർ അന്തർലീനമായി പ്രാപ്തരാണ് എല്ലാ യുക്തിയും പ്രയോഗിച്ച് അവർ നന്നായി പഠിക്കുന്നു പക്ഷേ അത് ക്ലാസ് മുറിയിൽ സംഭവിക്കുന്നതുകൊണ്ടല്ല ഇപ്പോൾ നമ്മൾ ഇൻസ്ട്രക്ഷണൽ ഘടകങ്ങൾ നോക്കുന്നു എന്താണ് ഇൻസ്ട്രക്ഷണൽ ഘടകങ്ങൾ ഉള്ളടക്കവുമായി നേരിട്ട് ബന്ധമില്ലാത്ത ഇൻസ്ട്രക്ഷണൽ ഘടകങ്ങൾ അതിനർത്ഥം ഞാൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഫ്ലൂയിഡ് മെക്കാനിക്സ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ പഠിപ്പിക്കുകയാണെങ്കിലും വിഷയം ഏതായാലും പഠിപ്പിക്കുന്ന രീതി എന്റെ യഥാർത്ഥ ക്ലാസ് റൂം നിർദ്ദേശത്തിൽ ഞാൻ ഈ ഇൻസ്ട്രക്ഷണൽ ഘടകങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല പഠനത്തിലേക്ക് നയിക്കുന്ന ഫലപ്രദമായ നിർദ്ദേശങ്ങൾ അവ സുഗമമാക്കുന്നു അതാണ് ഇൻസ്ട്രക്ഷണൽ ഘടകം അതിനർത്ഥം ഞാൻ എന്തെങ്കിലും പഠിപ്പിക്കാൻ താൽപ്പര്യപ്പെടുമ്പോൾ ഞാൻ ഒരു ഇൻസ്ട്രക്ഷണൽ ഘടകങ്ങൾ ഉപയോഗിക്കാനും അവ എന്റെ പ്രത്യേക രീതിയിൽ ക്രമീകരിക്കാനും ആഗ്രഹിക്കുന്നു ധാരാളം ഇൻസ്ട്രക്ഷണൽ ഘടകങ്ങളുണ്ട് വാസ്തവത്തിൽ 60 മുതൽ 70 വരെ ഇൻസ്ട്രക്ഷണൽ ഘടകങ്ങൾ റിപ്പോർട്ടുചെയ്യുന്നു അവയിൽ ചിലത് ഓവർലാപ്പുചെയ്യാം പക്ഷേ നല്ല അധ്യാപകർ സൃഷ്ടിച്ച ധാരാളം ഇൻസ്ട്രക്ഷണൽ ഘടകങ്ങൾ ഉണ്ട് അവ ഗവേഷണം നടത്തിഅവയുടെ ഫലപ്രാപ്തിയും നമുക്ക് അറിയാൻ കഴിയും അതിനാൽ ഈ ഇൻസ്ട്രക്ഷണൽ ഘടകങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്ന് സ്വയം ബോധ്യപ്പെടുത്താൻ കഴിയും ഒരിടത്ത് റിപ്പോർട്ടുചെയ്ത ചില സാമ്പിളുകൾ നോക്കാം ഇവ അക്ഷരമാലാക്രമത്തിൽ ആണ് ക്രമീകരിച്ചിരിക്കുന്നത് അതിന്റെ പ്രാധാന്യമനുസരിച്ചല്ല ഉദാഹരണത്തിന് മുൻകൂർ സംഘാടനം സമാനതകൾ ആധികാരിക ചുമതലകൾ പരിശീലനം സഹകരണ പ്രവർത്തനങ്ങൾ പ്രകടനം വിപുലീകരണം ഉദാഹരണങ്ങൾ ഫീഡ്ബാക്ക് ഗൈഡഡ് പ്രാക്ടീസ് സ്വതന്ത്ര പരിശീലനം പിയർ ട്യൂട്ടറിംഗ് വ്യക്തിഗതമാക്കൽ പ്രിവ്യൂ പരസ്പരം പഠിപ്പിക്കൽ പ്രതിഫലനം അവലോകനം ടീം വർക്ക് തുടങ്ങിയവ നിലവിലെ യൂണിറ്റിലും ഇനിപ്പറയുന്ന യൂണിറ്റിലും അവയിൽ ചിലത് നമ്മൾ തിരഞ്ഞെടുത്ത് ആ ഇൻസ്ട്രക്ഷണൽ ഘടകങ്ങൾ നോക്കും എന്താണ് അതിന്റെ പിന്നിലെ ഉദ്ദേശ്യം അത് എങ്ങനെ നടപ്പാക്കാം ചില ഇൻസ്ട്രക്ഷണൽ ഘടകങ്ങളിൽ ഗണ്യമായ ശേഖരിച്ച അനുഭവം നിലവിലുണ്ട് ഈ ഇൻസ്ട്രക്ഷണൽ ഘടകങ്ങളിൽ ചിലത് മറ്റുള്ളവയേക്കാൾ ഫലപ്രദമാണ് എന്നാൽ ഒരിക്കൽ കൂടി ഇത് ഒരു സന്ദർഭത്തിൽ ഫലപ്രദമാണെങ്കിൽ മറ്റ് ചില സന്ദർഭങ്ങളിൽ ഇത് ഒരുപോലെ ഫലപ്രദമാകുമെന്ന് ഇതിനർത്ഥമില്ല അവിടെയാണ് ഇൻസ്ട്രക്ഷണൽ സാഹചര്യ ഘടകങ്ങൾ ചിത്രത്തിലേക്ക് വരുന്നത് എന്നാൽ വലിയതോതിൽ നിർദ്ദിഷ്ട ഇൻസ്ട്രക്ഷണൽ ഘടകങ്ങളുണ്ട് അത് പരമാവധി സ്വാധീനം ചെലുത്തും അവയിൽ ചിലത് നമുക്ക് നോക്കാം വിശാലമായ ഒരു ഇൻസ്ട്രക്ഷണൽ ഘടകങ്ങളുടെ ഡയഗ്രം നൽകിയിരിക്കുന്നു മൊഡ്യൂൾ 2 മുഴുവനും നിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ടതാണ് അതിനാൽ നിങ്ങൾ ഇൻസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ ചില സമീപനമാണ് പിന്തുടരുന്നത് ഇനിപ്പറയുന്ന യൂണിറ്റുകളിൽ ഈ ഇൻസ്ട്രക്ഷൻ സമീപനങ്ങൾ നമ്മൾ പരിശോധിക്കും ഉദാഹരണത്തിന് ഈ സമീപനങ്ങൾ നേരിട്ടുള്ള നിർദ്ദേശം ആകാം ഞാൻ ഇതിനെ ക്ലാസ് റൂം പ്രഭാഷണം എന്ന് വിളിക്കില്ല പക്ഷേ നേരിട്ടുള്ള നിർദ്ദേശം അല്ലെങ്കിൽ മുഖാമുഖ നിർദ്ദേശം പ്രോജക്റ്റ് അടിസ്ഥാനമാക്കിയുള്ള നിർദ്ദേശം പ്രശ്ന അടിസ്ഥാന നിർദ്ദേശം അനുഭവപരിചയ പഠനം സിമുലേഷൻ അടിസ്ഥാനമാക്കിയുള്ള നിർദ്ദേശം തുടങ്ങിയവയാണ് ഉള്ളടക്ക സീക്വൻസിംഗുമായി ബന്ധപ്പെട്ട് ഒരു ചോയിസും ഉണ്ട് വ്യക്തിഗതമായി അധ്യാപകർ തീരുമാനിക്കുന്ന മുൻഗണനയാണിത് ഉദാഹരണത്തിന് നിങ്ങൾക്ക് എളുപ്പത്തിൽ നിന്ന് തുടങ്ങി ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങൾ ആശയങ്ങൾ കോൺക്രീറ്റ് ടു അബ്സ്ട്രാക്ട് ആശയങ്ങൾ അല്ലെങ്കിൽ അബ്സ്ട്രാക്ട് ടു കോൺക്രീറ്റ് ആശയങ്ങൾ എന്നിങ്ങനെ ഉപയോഗിച്ച് പഠിപ്പിക്കാൻ ആരംഭിക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചേക്കാം നിങ്ങളുടെ ക്ലാസ്സിൽ വളരെ ബുദ്ധിയുള്ള വിദ്യാർത്ഥികളുള്ളപ്പോൾ എളുപ്പത്തിൽ നിന്ന് തുടങ്ങി ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളിലേക്ക് സാവധാനം പോകാൻ നിങ്ങൾ ശ്രമിച്ചാൽ അവർ അക്ഷമരാകും അവർ പറയുന്നു നിങ്ങൾ എനിക്ക് ആകെയുള്ള ആശയം തരൂ മാത്രമല്ല അവ മനസിലാക്കാൻ കഴിവുള്ളവരുമാണ് അതിനാൽഅവർക്കു വേണ്ടത് അബ്സ്ട്രാക്ട് ടു കോൺക്രീറ്റ് രീതിയിൽ ചെയ്യുന്നതിനുള്ള ഒരു മാർഗമാണ് നിർദ്ദേശം വിശാലമായ ഇൻസ്ട്രക്ഷണൽ ഘടകങ്ങൾ ഉപയോഗിക്കുന്നു അതിനാൽ നിങ്ങൾ സ്വീകരിക്കുന്ന ഏത് സമീപനവും നേരിട്ടുള്ള നിർദ്ദേശം എന്ന് പറയാം അദ്ധ്യാപകന് അവൻ അവൾ അഭിസംബോധന ചെയ്യുന്ന അല്ലെങ്കിൽ വിഷയത്തിന്റെ സ്വഭാവം ലഭ്യമായ വിഭവങ്ങൾ എന്നിവ അടിസ്ഥാനമാക്കിയുള്ള നിർദ്ദിഷ്ട കോഴ്സ് ഔട്ട്കംസിന് ഉചിതമെന്ന് കരുതുന്ന ഏതെങ്കിലും ഇൻസ്ട്രക്ഷണൽ ഘടകങ്ങൾ ഉപയോഗിക്കാൻ കഴിയും എല്ലാ തിരഞ്ഞെടുപ്പുകളും അധ്യാപകനാണ് ചെയ്യുന്നത് എല്ലാ ഇൻസ്ട്രക്ഷണൽ ഘടകങ്ങളിലും ഏറ്റവും പ്രധാനം ലക്ഷ്യങ്ങളും ഫീഡ്ബാക്കും ആണ് ഒരു വിദ്യാർത്ഥി ആദ്യമായി ഒരു ആശയം അല്ലെങ്കിൽ തത്ത്വം അല്ലെങ്കിൽ ഒരു നിർദ്ദിഷ്ട നടപടിക്രമം പഠിക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം വിദ്യാർത്ഥി ആദ്യമായി അർത്ഥം പൂർണ്ണമായും കൃത്യമായും മനസിലാക്കുന്നില്ല ഇത് ആദ്യമായി അവതരിപ്പിക്കുമ്പോൾ ഒരു ആശയം മറ്റൊന്നിലേക്ക് പൂർണ്ണമായും കൃത്യമായും ബന്ധിപ്പിക്കാൻ അവർക്ക് കഴിയില്ല അവർ ചില പിശകുകൾ വരുത്തും ബുദ്ധിയുള്ള വിദ്യാർത്ഥികൾ പോലും ചില പിശകുകൾ വരുത്തിയേക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ അവ ഒഴിവാക്കിയേക്കാം വിദ്യാർത്ഥികൾ അവർ ചെയ്യുന്ന പിശകുകൾ എന്താണെന്നും അവരുടെ കഴിവുകൾ മെച്ചപ്പെടുത്തുന്നതിനായി അവർ ചെയ്യുന്ന ഒഴിവാക്കലുകൾ എന്താണെന്നും വിദ്യാർത്ഥികൾ അറിയേണ്ടതുണ്ട് അവരുടെ തലച്ചോറിലെ അറിവ് നിർമ്മിക്കുന്ന രീതിയിൽ അവർ തെറ്റുകൾ വരുത്തുകയാണെങ്കിൽ ഒരു പുതിയ സാഹചര്യത്തിൽ അത് കൃത്യമായി പ്രയോഗിക്കാനുള്ള അവരുടെ കഴിവ് ശരിയായിരിക്കില്ല ഒരു അധ്യാപകന്റെ റോളുകളിലൊന്ന് ഈ നിർമ്മിതികൾ പഠിതാക്കളുടെ തലച്ചോറിൽ ശരിയായി സൃഷ്ടിക്കപ്പെടുന്നു എന്ന് കഴിയുന്നിടത്തോളം ഉറപ്പാക്കുക എന്നതാണ് ഒഴിവാക്കലുകൾ അല്ലെങ്കിൽ പിശകുകൾ എവിടെയാണ് സംഭവിക്കുന്നതെന്ന് സംബന്ധിച്ച് വിദ്യാർത്ഥികൾക്ക് ഫീഡ്ബാക്ക് നൽകാൻ ഒരു അധ്യാപകൻ ശ്രമിക്കുന്നതാണ് ഒരു മാർഗ്ഗം വിദ്യാർത്ഥികളുടെ പഠനത്തെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നതിന് അധ്യാപകർക്ക് ഈ ഫീഡ്ബാക്ക് ആവശ്യമാണ് അധ്യാപകൻ കണ്ടെത്തിയില്ലെങ്കിൽ പഠനം മെച്ചപ്പെടുത്തുന്നതിന് ഉപയോഗപ്രദമായ ഫീഡ്ബാക്ക് നൽകാൻ അദ്ദേഹത്തിന് കഴിയില്ല സ്വന്തം അദ്ധ്യാപനം മെച്ചപ്പെടുത്തുന്നതിന് അധ്യാപകന് ഈ ഫീഡ്ബാക്ക് സ്വയം ഉപയോഗിക്കാൻ കഴിയും ഉദാഹരണത്തിന് വിദ്യാർത്ഥികൾ ആവർത്തിച്ച് ചില പിശകുകൾ വരുത്തുന്നതായി നിങ്ങൾ പതിവായി നിരീക്ഷിക്കുകയാണെങ്കിൽ അത് ഒരു ഫീഡ്ബാക്ക് ആണ് ആ പിശകുകൾ സംഭവിക്കുന്നില്ലെന്ന് പഠിപ്പിക്കുമ്പോൾ അദ്ധ്യാപകൻ ഉറപ്പുവരുത്തേണ്ടതായി മാറുന്നു ഫോർമാറ്റീവ് അസസ്മെന്റ് രീതികൾ അർത്ഥമാക്കുന്നത് നിങ്ങൾ അവരോട് എന്തെങ്കിലും ചെയ്യാൻ ആവശ്യപ്പെടുന്നുവെന്നാണ് ഇത് പഠനത്തെ സുഗമമാക്കുന്നതിന് മാത്രമാണ് ഉപയോഗിക്കുന്നത് അല്ലാതെ അവസാന ഗ്രേഡിലേക്ക് സംഭാവന ചെയ്യുന്നതിനല്ല നിങ്ങളുടെ ഫീഡ്ബാക്കിന് ഉയർന്ന നിലവാരമുണ്ടെങ്കിൽ അതായത് നിങ്ങൾക്ക് കൃത്യമായും വ്യക്തമായും അറിയാമെങ്കിൽ അത് ദുർബലരായ പഠിതാക്കളിൽ പരമാവധി സ്വാധീനം ചെലുത്തുന്നു നമുക്ക് വിവിധ തരത്തിലുള്ള സ്ഥാപനങ്ങൾ ഉള്ളതിനാൽ ഈ കോളേജുകളിൽ പലതിന്റെയും ആശങ്കകളിൽ ഒന്ന് വിജയശതമാനം വളരെ ഉയർന്നതാണെന്ന് ഉറപ്പുവരുത്തുകയോ പരാജയങ്ങൾ കുറയ്ക്കുകയോ ചെയ്യുക എന്നതാണ് പരാജയം വിദ്യാർത്ഥിക്കും സ്ഥാപനത്തിനും ചെലവേറിയതാണ് പരാജയങ്ങൾ കുറയ്ക്കുന്നതിന് ഉയർന്ന നിലവാരമുള്ള ഫീഡ്ബാക്ക് നൽകുക എന്നതാണ് ഒരു രീതി ഉയർന്ന നിലവാരമുള്ള ഫീഡ്ബാക്ക് നൽകുന്നത് ഇൻസ്ട്രക്ഷനിലെ ഏറ്റവും ഉയർന്ന മൂല്യമാണെന്ന് നമ്മൾ കരുതുന്നു നമുക്ക് രണ്ട് വ്യത്യസ്ത രീതികൾ നോക്കാം ഒന്ന് നമ്മൾ ഇതിനെ പൊതു പരിശീലനം എന്നും മറ്റൊന്ന് നല്ല പരിശീലനം എന്നും വിളിക്കുന്നു ചിലപ്പോൾ ഈ പൊതു സമ്പ്രദായം പോലും ഫലപ്രദമായി നടക്കുന്നില്ല അതിനർത്ഥം അധ്യാപകൻ ക്ലാസ് മുറിയിൽ എന്തെങ്കിലും അവതരിപ്പിക്കുന്നു കൂടാതെ ഒരു ട്യൂട്ടോറിയൽ ഉൾപ്പെടുത്തിയിരിക്കാം അല്ലെങ്കിൽ ഉണ്ടാകില്ല അതിനാൽ താൻ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് വിദ്യാർത്ഥിക്ക് അറിയാനുള്ള ഏക മാർഗം പരീക്ഷ നടത്തുമ്പോൾ മാത്രമാണ് ഹോം അസൈൻമെന്റുകൾ എന്ന് വിളിക്കപ്പെടുന്നവ പോലും വളരെ ഫലപ്രദമല്ലെന്ന് നമുക്കെല്ലാവർക്കും അറിയാം കാരണം വിദ്യാർത്ഥിക്ക് അതിൽ വലിയ മൂല്യമൊന്നും കാണാത്തപ്പോൾ വിദ്യാർത്ഥികൾ പരസ്പരം പകർത്താൻ പ്രവണത കാണിക്കുന്നു അവർക്ക് അത് ചെയ്യാൻ കഴിയാത്തതുകൊണ്ടല്ല അത് ചെയ്യാതിരിക്കുക എന്നത് കൂടുതൽ സൌകര്യപ്രദമാണ് പൊതുവായ സമ്പ്രദായമെന്ന് തോന്നുന്ന ഘട്ടങ്ങളുടെ ക്രമം നമുക്ക് നോക്കാം എന്റെ അഭിപ്രായത്തിൽ ഇത് വലിയ കുഴപ്പമില്ല ക്ലാസ് മുറിയിൽ സാധാരണയായി സംഭവിക്കുന്ന പുതിയ അറിവ് അധ്യാപകൻ ആദ്യം വിശദീകരിക്കുകയും പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നു മനസിലാക്കുന്നതിന്റെ തോത് പരിശോധിക്കാൻ അധ്യാപകൻ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു കൂടാതെ ചോദ്യങ്ങൾക്ക് വിദ്യാർത്ഥികൾ നന്നായി ഉത്തരം നൽകുന്നു കുറച്ച് വിദ്യാർത്ഥികൾ മാത്രമേ കൈകൾ ഉയർത്തി ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകൂ മറ്റുള്ളവർ മിണ്ടാതിരിക്കും ക്ലാസ്സിൽ പൂർത്തിയാക്കേണ്ട ഒരു ചുമതല ടീച്ചർ സജ്ജമാക്കുന്നു നിങ്ങൾക്ക് ഫലപ്രദമായ ട്യൂട്ടോറിയൽ സെഷൻ ഉണ്ടെങ്കിൽ ഇതാണ് പ്രധാനമായും സംഭവിക്കുന്നത് അദ്ധ്യാപകൻ ക്ലാസ് റൂമിലൂടെ നടക്കുന്നു ആ നടക്കുന്ന സമയത്ത് വിദ്യാർത്ഥികൾ ചുമതല പൂർത്തിയാക്കുന്നു ആവശ്യമുള്ളിടത്ത് ഫീഡ്ബാക്ക് നൽകുന്നു സെഷന്റെ അവസാനം എല്ലാ വിദ്യാർത്ഥികളുടെയും ജോലി ഫയലുകൾ എടുത്ത് മാർക്ക് അടയാളപ്പെടുത്തുകയും അതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ എഴുതുകയും ചെയ്യുന്നു അടുത്ത ക്ലാസിൽ വിദ്യാർത്ഥികൾക്ക് അദ്ദേഹം വ്യക്തമായ പ്രതികരണങ്ങൾ നൽകുകയും ജോലിയുടെ ബലഹീനതകൾ ചർച്ച ചെയ്യുകയും ചെയ്യുന്നു ഒരു നല്ല പരിശീലനമായി നമ്മൾ കരുതുന്നത് എന്താണെന്നു നോക്കാം പരിഗണനയിലുള്ള ചുമതലയെക്കുറിച്ച് ഇതിനകം എന്താണ് അറിയുന്നതെന്ന് ടീച്ചർ അവളുടെ വിദ്യാർത്ഥികളോട് ചോദിക്കുന്നു ഉദാഹരണത്തിന് പ്രശ്നം പരിഹരിക്കണമെങ്കിൽ ടീച്ചർ ആ ചോദ്യം അവതരിപ്പിക്കുകയും ആദ്യം വിദ്യാർത്ഥികളോട് ടാസ്ക്കിനെക്കുറിച്ച് ഇതിനകം എന്താണ് അറിയുന്നതെന്ന് ചോദിക്കുകയും ചെയ്യുന്നു അവർ ഉന്നയിക്കുന്ന പ്രധാന പോയിന്റുകൾ അവൾ ബോർഡിൽ എഴുതുന്നു വ്യത്യസ്ത വിദ്യാർത്ഥികൾ വ്യത്യസ്ത പോയിന്റുകൾ നൽകുന്നു അവർക്ക് ഇതിനകം തന്നെ കുറച്ചൊക്കെ അറിയാമെന്ന് അവൾ കണ്ടെത്തുന്നു പക്ഷേ ചില വശങ്ങളെക്കുറിച്ച് അവർക്കറിയില്ല അത് അവൾ വിവരിക്കുന്നു അതിനർത്ഥം അവർ കൊടുത്ത പോയിന്റുകളിൽ എവിടെയെങ്കിലും വിടവുകൾ കണ്ടെത്തിയാൽ അദ്ധ്യാപിക വിശദീകരിക്കും തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്ന ചില ഉദാഹരണങ്ങൾ ടീച്ചർ കാണിക്കുകയും എന്താണ് തെറ്റെന്ന് ചോദിക്കുകയും അവ എങ്ങനെ പരിഹരിക്കാമെന്നും ചർച്ച ചെയ്യുന്നു സംഭവിച്ച പിശകുകൾ തിരിച്ചറിഞ്ഞാണ് നിങ്ങൾ പഠിക്കുന്നത് ഒരു നല്ല പരിഹാരത്തിനായി മാനദണ്ഡങ്ങൾ ആവിഷ്കരിക്കാൻ അവൾ വിദ്യാർത്ഥികളോട് ആവശ്യപ്പെടുന്നു കയ്യിലുള്ള പ്രശ്നത്തിന് ഒരു നല്ല പരിഹാരം എന്തൊക്കെയാണ് ഇവിടെയാണ് വിദ്യാർത്ഥികൾ ജോഡികളായി പ്രവർത്തിക്കുന്നത് അവർ പരസ്പരം ചർച്ച ചെയ്യുകയും നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നു ഇത് ഒരു നല്ല പരിഹാരമായി അവർ കരുതുന്നു അവൾ അംഗീകരിക്കപ്പെട്ട മാനദണ്ഡം ബോർഡിൽ എഴുതുന്നു ഒരു പ്രശ്നം പരിഹരിക്കാൻ അവൾ വിദ്യാർത്ഥികളെ സജ്ജമാക്കുകയും അവരെ സമർത്ഥമായി വിലയിരുത്തുമെന്ന് അവരോട് പറയുകയും ചെയ്യൂന്നു അതിനർത്ഥം എല്ലാവരുടെയും പരിഹാരം മറ്റൊരാൾ വിലയിരുത്തും ആവശ്യമുള്ളിടത്ത് സഹായം നൽകുന്നതിന് അവൾ വിദ്യാർത്ഥികൾക്കിടയിലൂടെ നടക്കുന്നു വിദ്യാർത്ഥികൾ അവരുടെ പ്രശ്നങ്ങൾ പൂർത്തിയാക്കുന്നു അവൾ ഒരു ബലഹീനത കണ്ടെത്തിയാൽ നിങ്ങൾ എങ്ങനെ ചെയ്തുവെന്ന് നോക്കൂ എന്ന് ആ കൂട്ടിയോട് പറയുന്നു ബുദ്ധിമുട്ട് നിർണ്ണയിക്കാനും അവരെ സഹായിക്കാനും അവൾ വിദ്യാർത്ഥി നൽകിയ ഉത്തരം ഉപയോഗിക്കുന്നു അവർ ജോലിചെയ്യുമ്പോൾ സമപ്രായക്കാരുടെ വിലയിരുത്തലിന് മുമ്പായി മാനദണ്ഡങ്ങൾക്കനുസൃതമായി സ്വന്തം സൃഷ്ടികൾ പരിശോധിക്കാൻ അവൾ വിദ്യാർത്ഥികളെ ഓർമ്മിപ്പിക്കുന്നു അതിനർത്ഥം ബോർഡിൽ എഴുതിയിരിക്കുന്ന മാനദണ്ഡം ബോർഡിൽ എഴുതിയ എല്ലാ മാനദണ്ഡങ്ങളും അവർ കണ്ടെത്തിയ പരിഹാരത്തിലൂടെ പാലിക്കുന്നുണ്ടെന്ന് അവർ ഉറപ്പാക്കണം തുടർന്ന് അധ്യാപകൻ ഓരോ വിദ്യാർത്ഥികളിൽ നിന്നും പരിഹാരം ശേഖരിക്കുകയും മൂല്യനിർണ്ണയം ചെയ്യുന്നതിനായി സഹപാഠികൾക്ക് നൽകുകയും ചെയ്യുന്നു ഒരു ലളിതമായ രീതി ഇതാണ് വിദ്യാർത്ഥി തന്റെ പേര് പേപ്പറിൽ എഴുതുന്നു സമ്മതിച്ച മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി വിദ്യാർത്ഥി അവരുടെ സഹപാഠികളുടെ പ്രവർത്തനങ്ങൾ വായിച്ചു മാർക്ക് നൽകുന്നു പെൻസിലിൽ അഭിപ്രായങ്ങൾ എഴുതുന്നു ഈ പ്രക്രിയയെ വീണ്ടും സഹായിക്കാൻ അത് മറ്റൊരാൾക്ക് കൊടുക്കുന്നു ആ പ്രക്രിയയിൽ നിങ്ങൾ മറ്റുള്ളവരെ തിരുത്തുമ്പോൾസ്വയം പഠിക്കും പേപ്പർ അതിന്റെ ശരിയായ ഉടമയുടെ അടുത്തേക്ക് തിരിച്ചു പോകുന്നു അടയാളപ്പെടുത്തൽ പരിശോധിക്കുന്നതിനും സൃഷ്ടി മെച്ചപ്പെടുത്തുന്നതിനും വേണ്ടി അവരുടെ ജോലിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ വായിക്കാൻ കുറച്ച് സമയം അധ്യാപകർ നൽകുന്നു തൃപ്തികരമല്ലാത്ത ഉത്തരങ്ങൾ നൽകിയ വിദ്യാർത്ഥികളോട് അടുത്ത ക്ലാസ് ആരംഭിക്കുമ്പോൾ അത് വീണ്ടും ചെയ്ത് സമർപ്പിക്കാൻ അവൾ ആവശ്യപ്പെടുന്നു ഇതൊക്കെയാണെങ്കിലും ചില വിദ്യാർത്ഥികൾക്ക് നല്ല പ്രകടനം നടത്താൻ കഴിഞ്ഞേക്കില്ല അതിനാൽ അടുത്ത ദിവസം സമർപ്പിക്കാൻ അവരോട് ആവശ്യപ്പെട്ടു മൂല്യനിർണയത്തിൽ എന്ത് പ്രശ്നങ്ങൾ വന്നു എന്ന് ചോദിക്കുകയും ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്യുന്നു നമ്മൾ സാധാരണ പരിശീലനം നല്ല പരിശീലനം എന്നിവ എന്താണെന്നു നോക്കി ഈ പൊതു സമ്പ്രദായം നോക്കുകയാണെങ്കിൽ പഠിപ്പിക്കുക പഠനം പരീക്ഷിക്കുക ഗ്രേഡ് ചെയ്യുക തുടർന്ന് മുന്നോട്ട് പോകുക എന്നതാണ് ഇത് വിശ്വസ്തതയോടെ ചെയ്താൽ നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ഇത് ഇതിനകം തന്നെ ഒരു സുപ്രധാന പുരോഗതിയാണ് എങ്ങനെ മെച്ചപ്പെടുത്താം എന്നതിനെക്കുറിച്ച് ടീച്ചർ വിദ്യാർത്ഥികൾക്ക് ചില അഭിപ്രായങ്ങൾ നൽകുന്നു എന്നാൽ അടയാളപ്പെടുത്തുമ്പോൾ അവളുടെ പ്രധാന ലക്ഷ്യം ഉത്തരങ്ങൾ കഴിയുന്നത്ര കൃത്യമായി ഗ്രേഡ് ചെയ്യുക എന്നതാണ് പഠന നിലവാരവും അളവും കഴിവുകളെ ആശ്രയിച്ചിരിക്കുന്നു എന്നതാണ് ഈ സമീപനത്തിന് പിന്നിലെ ഒരു പൊതു ധാരണ മോശം പഠനമാണ് എന്നാൽ സാധാരണയായി കഴിവോ ബുദ്ധിയോ ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് പറയുന്നു നിങ്ങൾ ആ ധാരണ ഉണ്ടാക്കുകയും ആ ധാരണയിൽ മുന്നോട്ടു പോകുകയും ചെയ്താൽ ഈ വിദ്യാർത്ഥികൾ എല്ലായ്പ്പോഴും പഠനനിലവാരം കുറഞ്ഞവരായി തുടരുകയും ചെയ്യും നല്ല പരിശീലനം തുടക്കത്തിൽ ഇത് വളരെ സങ്കീർണ്ണമാണെന്ന് തോന്നുന്നു അതിൽ നിരവധി ഘട്ടങ്ങളുണ്ട് എന്നാൽ ചെലവഴിച്ച സമയത്തിന്റെ അടിസ്ഥാനത്തിൽ വാസ്തവത്തിൽ അത് കാണുന്നത്ര ഭയാനകമല്ല ആദ്യമായി അത് ചെയ്യാൻ കഴിയുന്നതാണ് കൂടാതെ കുറച്ച് പരിശീലനത്തിലൂടെ അധ്യാപകന് അത് ഒപ്റ്റിമൈസ് ചെയ്യാൻ കഴിയും കാരണം നിങ്ങൾ ഇത് പതിവായി ചെയ്യാൻ പോകുന്നു അപ്പോൾ ഒരാൾക്ക് എല്ലാ ഘട്ടങ്ങളും നന്നായി പഠിക്കാൻ കഴിയും ക്രിയാത്മകമായി ചിന്തിക്കുന്ന അധ്യാപകൻ ഈ രീതി പിന്തുടരുന്നു അയാൾ വിശ്വസിക്കുന്നത് കഴിവ് സ്വതസിദ്ധമല്ലഅത് സ്വായത്തമാക്കുന്ന ഒന്നാണ് എന്നാണ് ചില ആളുകൾക്ക് വേഗത്തിൽ പഠിക്കാൻ കഴിയും പക്ഷേ പഠിക്കാനുള്ള കഴിവ് തന്നെ പഠിച്ചെടുക്കേണ്ടുന്ന ഒന്നാണ് വിദ്യാർത്ഥികൾക്ക് ഇതിനകം അറിയാവുന്ന കാര്യങ്ങൾ അവൾ കണ്ടെത്തുന്നു ഏതെങ്കിലും തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ അവ തിരുത്തുന്നു തുടർന്ന് പഠിപ്പിക്കുന്നു ലക്ഷ്യങ്ങളിലേക്കുള്ള അവരുടെ പുരോഗതിയെക്കുറിച്ച് നല്ലതും നിരന്തരവും വിജ്ഞാനപ്രദവുമായ ഫീഡ്ബാക്ക് നൽകാൻ വിദ്യാർത്ഥികൾ ലക്ഷ്യങ്ങൾ നന്നായി മനസ്സിലാക്കണമെന്ന് അവൾ ആഗ്രഹിക്കുന്നു നല്ല പരിശീലനവുമായി ബന്ധപ്പെട്ട ലക്ഷ്യം അധ്യാപകർ വിദ്യാർത്ഥികൾക്ക് ഫീഡ്ബാക്ക് നൽകുക എന്നത് മാത്രമല്ല നല്ല തുടർച്ചയായ വിവരദായക ഫീഡ്ബാക്ക് നൽകാൻ ഈ വിദ്യാർത്ഥികൾക്കും കഴിയണം അവസാനമായി വിദ്യാർത്ഥികൾക്ക് അവർ എത്രമാത്രം കൃത്യമായി പ്രവർത്തിക്കുന്നുവെന്ന് അറിയാൻ കഴിയണം അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ അവർക്ക് തെറ്റുകൾ കണ്ടെത്താൻ കഴിയുമെങ്കിൽ അവർക്ക് തിരുത്തൽ നടപടികൾ കൈക്കൊള്ളാനും തുടർച്ചയായി മെച്ചപ്പെടുത്താനും കഴിയും സ്വയം പഠിക്കാനുള്ള അവരുടെ കഴിവ് ഗണ്യമായി മെച്ചപ്പെടുമെന്നാണ് ഇതിനർത്ഥം ലക്ഷ്യങ്ങൾ വ്യക്തമാക്കുക പഠനത്തിലെ പിശകുകളും വീഴ്ചകളും നിർണ്ണയിക്കുക തുടർന്ന് ഇവ ശരിയാക്കുക എന്നിവയാണ് വിലയിരുത്തലിനുള്ള അധ്യാപകരുടെ സമീപനം എന്നതിനാൽ വിലയിരുത്തലിന്റെ ഉദ്ദേശ്യം അവൾ കാണുന്നു ഫോർമാറ്റീവ് അസസ്മെന്റിലൂടെ ഫീഡ്ബാക്ക് നൽകുക എന്നതാണ് അതിനുള്ള പ്രധാന രീതി ഈ മൂന്ന് വാക്കുകൾ ലക്ഷ്യങ്ങൾ മെഡലുകൾ ദൌത്യങ്ങൾ എന്നിവ സാഡ്ലർ അവതരിപ്പിച്ചു നമ്മുടെ ജീവിതത്തെ ആശയക്കുഴപ്പത്തിലാക്കാതെയും സങ്കീർണ്ണമാക്കാതെയും ഉപയോഗിക്കാൻ കഴിയുന്ന വാക്കുകളാണിവ ലക്ഷ്യങ്ങൾ എന്നാൽ നമുക്ക് പരിചിതമായ കോഴ്സ് ഫലങ്ങൾ കോഴ്സ് ഫലങ്ങൾ എങ്ങനെ എഴുതാം അവ കൃത്യമായി എന്തൊക്കെയാണ് കോഴ്സ് ഫലങ്ങളുടെ ഘടകങ്ങളിൽ പ്രവർത്തനം ഉൾപ്പെടുന്നു നിങ്ങൾ ശരിക്കും വൈദഗ്ധ്യമുള്ളവരാണെങ്കിൽ അവ കോഗ്നിറ്റീവ് അഫക്റ്റീവ് സൈക്കോമോട്ടോർ എന്നിവയിൽ ഉൾപ്പെടാം അനുബന്ധ പ്രവർത്തനക്രിയകളാൽ പ്രതിനിധീകരിക്കുന്നു അറിവ് നാല് പൊതുവിജ്ഞാന വിഭാഗങ്ങളിൽ നിന്നും നാല് എഞ്ചിനീയറിംഗ് വിഭാഗങ്ങളിൽ നിന്നും വ്യവസ്ഥകൾ ഏത് സാഹചര്യത്തിലാണ് പ്രവൃത്തി നടപ്പാക്കേണ്ടത് മാനദണ്ഡങ്ങൾ പഠിതാവിന്റെ സ്വീകാര്യമായ പ്രകടനത്തെ പ്രതിനിധീകരിക്കുന്നത് ഒരു നല്ല പരിഹാരംഇതൊക്കയാണ് ഘടകങ്ങൾ TALE 1 ൽ നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ ഒരു CO എഴുതുന്നതിൽ നമ്മൾ ഈ നാല് ഘടകങ്ങളെക്കുറിച്ച് സംസാരിച്ചു ഈ നാല് ഘടകങ്ങളിൽ പ്രവർത്തനവും വിജ്ഞാന ഘടകങ്ങളും നിർബന്ധമാണ് അതേസമയം വ്യവസ്ഥകളും മാനദണ്ഡങ്ങളും ഓപ്ഷണലാണ് ലക്ഷ്യങ്ങൾ എന്നാൽ കോഴ്സ് ഔട്ട്കംസ് ആണ് എന്നാൽ ലക്ഷ്യങ്ങൾ വളരെ വ്യക്തമായി പ്രസ്താവിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് കോഴ്സ് ഔട്ട്കംസ് ശ്രദ്ധാപൂർവ്വം എഴുതേണ്ടത് മെഡൽ നിങ്ങൾ സ്വയം ഒരു മെഡൽ നൽകുന്നത് അത് എന്തിനെ പ്രതിനിധീകരിക്കുന്നു പ്രസ്താവിച്ച സിഒയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇപ്പോൾ എവിടെയാണ് കാരണം ഇതാണ് ഞാൻ പരിഹരിക്കേണ്ടത് ക്ലാസ് മുറിയിൽ ഞാൻ ശ്രദ്ധിക്കുന്നതിലൂടെയും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലൂടെയും ഞാൻ എവിടെ എത്തി മെഡൽ നമ്മോടു പറയുന്നു നിങ്ങൾ കൃത്യമായി എവിടെയാണെന്നത് അതായത് നിങ്ങൾ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചുള്ള ടാസ്ക് കേന്ദ്രീകൃത വിവരങ്ങൾ അല്ലെങ്കിൽ സിഒകളുടെ കാര്യത്തിൽ നന്നായി പ്രവർത്തിക്കുന്നു ഇതെല്ലാം വിവരദായകമായ അഭിപ്രായങ്ങളുടെ രൂപത്തിലായിരിക്കണമെന്ന് മെഡൽ പറയുന്നു ഈ മെഡലുകൾ പ്രക്രിയകൾക്കുമായിരിക്കാം നിങ്ങൾ നടപടിക്രമങ്ങൾ ശരിയായി പിന്തുടർന്നു മാത്രമല്ല ഞങ്ങൾക്ക് ഉൽപ്പന്നത്തിലും താൽപ്പര്യമുണ്ട് അതിനാൽ മെഡലുകൾ പ്രക്രിയയുമായി ബന്ധപ്പെട്ട മെഡലുകൾ അല്ലെങ്കിൽ ഉൽപ്പന്നവുമായി ബന്ധപ്പെട്ട മെഡലുകൾ ആകാം മൊത്തത്തിലുള്ള ഗ്രേഡുകൾ മാർക്കുകൾ മുതലായവ മെഡലുകളല്ല കാരണം അവ ഏതെല്ലാം വശങ്ങൾ നന്നായി ചെയ്യുന്നു എന്നതിനെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ നൽകുന്നില്ല അപ്പോൾ ദൌത്യം ഇതാണ് ഞാൻ എവിടെയാണെന്ന് എനിക്കറിയാമെങ്കിൽ ഞാൻ എങ്ങനെ എന്റെ ലക്ഷ്യത്തിലെത്തും എനിക്ക് എന്റെ ഇന്റർമീഡിയറ്റ് ലക്ഷ്യങ്ങൾ സജ്ജീകരിക്കേണ്ടതുണ്ട് ഞാൻ ഇവിടെയുണ്ടെങ്കിൽ ലക്ഷ്യത്തിലെത്തുന്നതിന് മുമ്പായി ഞാൻ കടന്നുപോകേണ്ട ഘട്ടങ്ങളുടെ പരമ്പരകൾ എന്തൊക്കെയാണ് ഇത് പിഡിസിഎ എന്ന് വിളിക്കുന്ന ക്വാളിറ്റി ലൂപ്പിന് TALE 1 ൽ സൂചിപ്പിച്ചിരിക്കുന്നു ഏകദേശം തുല്യമാണ് തുടർച്ചയായ മെച്ചപ്പെടുത്തലിനായി ഡെമിംഗ് സൈക്കിൾ പിഡിസിഎ ആയി നിർവചിക്കപ്പെട്ടിട്ടുണ്ട് ഇത് ഏതാണ്ട് സമാനമാണ് പ്രകടനം മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു നിർദ്ദിഷ്ട ലക്ഷ്യമാണിത് നിങ്ങൾക്ക് പ്രോസസ്സ് ടാർഗെറ്റുകൾ അല്ലെങ്കിൽ ഉൽപ്പന്ന ടാർഗെറ്റുകൾ ഉണ്ടായിരിക്കാം മിഷൻ എന്നാൽ തെറ്റ് തിരുത്തലോ അല്ലെങ്കിൽ മുൻപ് ചെയ്ത കാര്യങ്ങളിൽ വരുന്ന മാറ്റങ്ങളോ അല്ലെങ്കിൽ കൃത്യമായി ഞാൻ എന്ത് ചെയ്യണം അല്ലെങ്കിൽ ഭാവിയിലെ പ്രവർത്തനങ്ങൾക്ക് ഗുണകരമായ രീതിയിൽ ഹ്രസ്വകാല ലക്ഷ്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇതൊക്കയാണ് പ്രധാന ആശയം മനസിലാക്കുന്നതിൽ വളരെയധികം തെറ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞ് മിഷനുകൾ പിന്നോക്കമായി കാണുന്നത് സാധാരണമാണ് മുന്നോട്ട് നോക്കുന്നതും പോസിറ്റീവും ആയിരിക്കുമ്പോൾ അടുത്ത തവണ നിങ്ങൾ ഈ പ്രധാന ആശയങ്ങൾ പരിശോധിച്ചുവെന്ന് ഉറപ്പാക്കുക അതാണ് ഫീഡ്ബാക്ക് നൽകേണ്ടത് ഒരു ദൌത്യം മതിയായ വെല്ലുവിളി നിറഞ്ഞതും എന്നാൽ കൈവരിക്കാവുന്നതുമാണ് അതാണ് മിഷന്റെ സവിശേഷതകൾ ഫീഡ്ബാക്ക് മെഡലിന്റെയും ദൌത്യത്തിന്റെയും ഫീഡ്ബാക്ക് നേട്ടത്തെ കുറിച്ച് മുൻധാരണകൾ ഒന്നും ഇല്ലാത്തതു ആയിരിക്കണം കാരണം ഇത് ഫോർമാറ്റീവ് വിലയിരുത്തൽ മാത്രമാണ് നിങ്ങൾ ഗ്രേഡുകൾ നൽകുന്നില്ല ഒരു സാഹചര്യത്തിലും ഒരാൾ വിദ്യാർത്ഥിയെ പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിൽ അഭിപ്രായപ്പെടരുത് പല വിദ്യാർത്ഥികളും ഉദ്ദേശ്യത്തിന്റെ പരാജയത്താൽ കഷ്ടപ്പെടുന്നു അതായത് സിഒകളെ തെറ്റായി വ്യാഖ്യാനിച്ചതിനാൽ അവർ തെറ്റായ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുകയാണ് ഒരു അദ്ധ്യാപകൻ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം വിദ്യാർത്ഥികൾ CO അല്ലെങ്കിൽ കഴിവ് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നതാണ് വിദ്യാർത്ഥികൾ മെറ്റാകോഗ്നിറ്റീവ് അറിവ് എന്ന് നമ്മൾ നിർവചിച്ച സ്വയം ഫീഡ്ബാക്ക് നൽകാൻ കഴിവുള്ളവരായിരിക്കണം അല്ലാത്തപക്ഷം അവർക്ക് ടാസ്ക്കുകളിൽ വിജയിക്കാനോ മെച്ചപ്പെടുത്താനോ കഴിയില്ല ഇത് ചെയ്യുന്നതിന് അവർ സിഒ മനസിലാക്കുകയും ഇവക്കനുസരിച്ചുള്ള അവരുടെ പുരോഗതി വിലയിരുത്തുകയും വേണം നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ ഉൾപ്പെട്ടിരിക്കുന്ന പ്രക്രിയകളും സ്വന്തം ഫീഡ്ബാക്ക് ഉപയോഗപ്പെടുത്താനുള്ള കഴിവും മെറ്റാ കോഗ്നിറ്റീവ് അറിവ് ഇതൊക്കെ നിങ്ങൾ എവിടെയാണെന്നും നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നും കണ്ടെത്തുന്നതിന് സഹായിക്കുന്നു ഫീഡ്ബാക്ക് ഫലപ്രദമായി ഉപയോഗിക്കുന്നതിന് ആവശ്യമായ ഘടകങ്ങളാണിവ ഒരു അധ്യാപകന് ഉപയോഗിക്കാൻ കഴിയുന്ന ചില ഫീഡ്ബാക്ക് തന്ത്രങ്ങൾ ഏതാണ് ഇന്ററാക്ടിവ് അധ്യാപന രീതികൾ സ്വയം വിലയിരുത്തൽ അല്ലെങ്കിൽ സഹപാഠികളുടെ വിലയിരുത്തൽ എന്നിവ ഉപയോഗിക്കുക പരിശീലനത്തിന് സമയം നൽകുക അവർ എവിടെയാണ് മാനദണ്ഡങ്ങൾ പാലിച്ചതെന്ന് കാണിക്കുകവിദ്യാർത്ഥികളെ അവരുടെ പുരോഗതിയെ ഗ്രാഫിക്കായി പ്രതിനിധീകരിക്കാൻ അനുവദിക്കുക സ്വന്തം പുരോഗതിയുടെ ഇത്തരത്തിലുള്ള ഗ്രാഫിക് പ്രാതിനിധ്യം വരയ്ക്കുന്നത് അധ്യാപകനല്ല വിദ്യാർത്ഥിയാണ് ഒരു പ്രത്യേക സിഒയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥിക്ക് സ്വന്തം പുസ്തകത്തിൽ കാണിക്കാൻ കഴിയും അയാൾക്ക് ഒരു ഗ്രാഫ് വരയ്ക്കാനും അയാൾ കൃത്യമായി എവിടെയാണെന്ന് പറയാനും കഴിയും മാത്രമല്ല പുരോഗമിക്കുമ്പോൾ ഗ്രാഫ് മുകളിലേക്ക് നീക്കുന്നത് തുടരാനും കഴിയും പഠനത്തോടുള്ള സൃഷ്ടിപരമായ സമീപനത്തെ ഗണ്യമായി സഹായിക്കുന്ന ഗ്രൂപ്പ് അല്ലെങ്കിൽ ജോഡി വർക്ക് ഉപയോഗിക്കുക ഇനിപ്പറയുന്ന ഇൻസ്ട്രക്ഷണൽ ഘടകങ്ങൾ "ഉപമകളും സമാനതകളും" ആണ് അവ എന്തുകൊണ്ട് പ്രാധാന്യമർഹിക്കുന്നു ഒരു വിദ്യാർത്ഥി പഠിക്കാൻ ശ്രമിക്കുന്ന ഏത് പുതിയ കാര്യവും വിദ്യാർത്ഥിക്ക് ഇതിനകം അറിയാവുന്നതുമായി ബന്ധിപ്പിക്കണം അവർക്ക് കൃത്യമായി എന്താണ് അറിയുന്നതെന്ന് കണ്ടെത്താനുള്ള ഒരു മാർഗ്ഗം നിങ്ങൾക്ക് സമാനമായ കാര്യങ്ങൾ മോഡലുകൾ എന്നിവ ഉപയോഗിക്കാം അധ്യാപകൻ ഉപമകളും സമാനതകളും ഉപയോഗിക്കണം ചില ഉപമകൾ ചില വിദ്യാർത്ഥികൾക്ക് കൂടുതൽ അർത്ഥമുള്ളതായി തോന്നാം മറ്റ് ചില സാമ്യതകൾ മറ്റ് ചില ഗ്രൂപ്പ് വിദ്യാർത്ഥികൾക്ക് കൂടുതൽ അർത്ഥമുള്ളതായി തോന്നാം അതിനാൽ നിശ്ചിത സമയത്ത് അധ്യാപകന് ഉപയോഗിക്കാൻ കഴിയുന്നത്ര ഉപമകളും സമാനതകളും അധ്യാപകൻ ഉപയോഗിക്കേണ്ടത് ആവശ്യമാണ് സമാനതകളും വ്യത്യാസങ്ങളും തിരിച്ചറിയാൻ വിദ്യാർത്ഥികളെ വ്യക്തമായി പഠിപ്പിക്കുന്നത് അറിവ് മനസിലാക്കാനും ഉപയോഗിക്കാനും ഉള്ള കഴിവ് വർദ്ധിപ്പിക്കുന്നു സമാനതകൾ എന്നാൽ ഒരുപോലെ തന്നെയാകണം എന്നില്ല ഇത് കുറച്ച് സമാനമാണ് ഉദാഹരണത്തിന് വൈദ്യുതി ഒരു പൈപ്പിലൂടെ ഒഴുകുന്ന വെള്ളം പോലെയാണ് ഒരു പൈപ്പിലൂടെ ഒഴുകുന്ന വെള്ളവും ഒരു വയർ വഴി ഒഴുകുന്ന വൈദ്യുതിയും നിങ്ങൾ ദൃശ്യവൽക്കരിക്കുകയും ഇവ രണ്ടും താരതമ്യം ചെയ്യുകയും ചെയ്താൽ നിരവധി സമാനതകൾ ഉണ്ടാകും പക്ഷേ അവയ്ക്കും നിരവധി വ്യത്യാസങ്ങൾ ഉണ്ടാകും ഈ വ്യത്യാസങ്ങൾ നോക്കുന്നതിലൂടെ ഒരാൾക്ക് മനസിലാക്കാൻ കഴിയും പക്ഷേ ഇപ്പോഴും നിങ്ങൾ ഉപയോഗിക്കുന്ന സാമ്യതയോ ഉപമയോ വിദ്യാർത്ഥികൾക്ക് ഇതിനകം പരിചിതമായ ഒന്നാണ് വിദ്യാർത്ഥികൾക്ക് അവരുടെ എഞ്ചിനീയറിംഗ് പ്രോഗ്രാം അവർ ആരംഭിക്കുന്ന സമയത്തു തന്നെ പരിചിതമായ ഒന്നാണ് പൈപ്പിലൂടെയുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് സമാനതകളും വ്യത്യാസങ്ങളും സ്വതന്ത്രമായി തിരിച്ചറിയാൻ വിദ്യാർത്ഥികൾക്ക് അവസരങ്ങൾ നൽകുന്നത് അറിവ് മനസിലാക്കാനും ഉപയോഗിക്കാനും ഉള്ള കഴിവ് വർദ്ധിപ്പിക്കുന്നു അതിനർത്ഥം ടീച്ചർ ഒരു സാമ്യത നൽകുന്നതിന് പകരം വിദ്യാർത്ഥികൾ തന്നെ യഥാർത്ഥത്തിൽ സമാനതകളും വ്യത്യാസങ്ങളും കണ്ടെത്തുകയും സ്വയം തിരിച്ചറിയുകയും വേണം ഇതിന് ചില ഗ്രാഫിക് രീതികൾ ഉപയോഗിക്കാൻ കഴിയും അത് പിന്നീടുള്ള യൂണിറ്റിൽ കാണും വിദ്യാർത്ഥികൾ സമാനതകളും ഉപമകളും സ്വയം സൃഷ്ടിക്കുകയാണെങ്കിൽ ഇവ രണ്ടും സജീവമായ പഠന രീതിയായി ഉപയോഗിക്കാൻ കഴിയും അതിനാൽ അടുത്ത ലെവൽ നിങ്ങൾ ഒരു ആശയം എടുത്ത് അതിനോട് സമാനതയോ സാമ്യതയോ ഉള്ള കാര്യങ്ങൾ തിരിച്ചറിയാൻ അവരോട് ആവശ്യപ്പെടുക വിദ്യാർത്ഥി ഇപ്പോൾ സാമ്യത കണ്ടെത്തുകയും അതിനെ ന്യായീകരിക്കുകയും വേണം സമാനതകളെയും വ്യത്യാസങ്ങളെയും തിരിച്ചറിയുന്നത് താരതമ്യപ്പെടുത്തൽ വർഗ്ഗീകരണം രൂപകങ്ങൾ സൃഷ്ടിക്കൽ സമാനതകൾ സൃഷ്ടിക്കൽ എന്നിങ്ങനെയുള്ള ഉയർന്ന സംവേദനാത്മക മാർഗങ്ങളിലൂടെ സാധിക്കും ഇവയെല്ലാം ബ്ലൂംസ് ടാക്സോണമി അനുസരിച്ച് മനസ്സിലാക്കുക എന്ന വിഭാഗത്തിൽ വരും അധ്യാപകൻ നേരിട്ടുള്ള അധ്യാപനം ഉപയോഗിക്കുകയാണെങ്കിൽ അത് ക്ലാസ്സിൽ പരിശീലിക്കാൻ കഴിയും വിദ്യാർത്ഥികൾക്ക് സ്വതന്ത്രമായി പരിശീലനം നൽകുക ഗ്രാഫിക് പ്രതീകാത്മക പ്രാതിനിധ്യം ഉപയോഗിച്ച് പഠിപ്പിക്കുക ഇവയെല്ലാം സമാനതകളും ഉപമകളും ഉപയോഗിക്കുന്നതിനുള്ള രീതികളാണ് ഇത് സൃഷ്ടിക്കുന്നതിലൂടെ നിങ്ങൾ ഒരു ന്യൂറൽ നെറ്റ്വർക്കിനെ മറ്റൊരു ന്യൂറൽ നെറ്റ്വർക്കിലേക്ക് പരസ്പരം ബന്ധിപ്പിക്കുന്നു അവ പരസ്പരം ബന്ധിപ്പിക്കുമ്പോൾ അവ കൃത്യമായി ഒരുപോലെയാണെന്നു അർത്ഥമാക്കുന്നില്ല പക്ഷേ അവ സമാനമാണ് ദീർഘകാല മെമ്മറിയിലെ വിവരങ്ങൾ നന്നായി ചിന്തിക്കാനും നിലനിർത്താനും വിദ്യാർത്ഥിയെ കൂടുതൽ സഹായിക്കുന്നതിന് ഇത് ഇപ്പോഴും വളരെയധികം സഹായിക്കുന്നു ഒരു അഭ്യാസം ചെയ്യാൻ നമ്മൾ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു നിങ്ങൾ പഠിപ്പിച്ച ഒരു വിഷയത്തിൽ ഒരു യോഗ്യത നേടുന്നതിനായി ഒരു ഇൻസ്ട്രക്ഷൻ പ്രോസസ് സീക്വൻസ് നിർമ്മിക്കുക അത് ഇൻസ്ട്രക്ഷണൽ ഘടകമായ ലക്ഷ്യങ്ങളും ഫീഡ്ബാക്കും ഉപയോഗിക്കാൻ കഴിയും നിങ്ങൾ ഇത് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കാനും നിങ്ങൾ ലക്ഷ്യത്തിൽ നിന്ന് എത്ര ദൂരെയാണെന്നതിനെക്കുറിച്ചുള്ള ഫീഡ്ബാക്ക് നൽകാനും അത്തരമൊരു ശ്രേണി സ്വയം നിർമ്മിക്കാൻ നിങ്ങൾക്ക് കഴിയും നിങ്ങളുടെ അഭ്യാസത്തിന്റെ ഫലം ഈ പ്രത്യേക ഇമെയിലിൽ പങ്കിട്ടാൽ നമ്മൾ ഇത് വിലമതിക്കും tale iisctagmail com അടുത്ത യൂണിറ്റിൽ ഇൻസ്ട്രക്ഷണൽ കോംപോണേന്റ്സ് തന്നെ തുടരും അതിൽ ഗ്രാഫിക് ഓർഗനൈസർമാർ കുറിപ്പ് സൃഷ്ടിക്കൽ സംഗ്രഹിക്കൽ പരസ്പരമുള്ള പഠിപ്പിക്കൽ എന്നിവ വിശദമാക്കും വളരെ നന്ദി